ഹാഫ് റേഞ്ച് ഫോറിയർ എക്സ്പാൻഷൻസ് എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് 2 ലെ ലെക്ചർസിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇത് ലെക്ചർ 37 ഹാഫ് റേഞ്ച് ഫോറിയർ എക്സ്പാൻഷൻസ് അതിനാൽ ഈ പ്രഭാഷണത്തിൽ ഹാഫ് റേഞ്ചിലുള്ള ഫോറിയർ സൈൻ സീരീസ് വിപുലീകരണവും ഹാഫ് റേഞ്ചിലുള്ള ഫോറിയർ കൊസൈൻ സീരീസ് എക്സ്പാൻഷനും നമ്മൾ കാണും അതിനാൽ കഴിഞ്ഞ പ്രഭാഷണത്തിൽ ഈവൻഓഡ്ഡ്evenodd പ്രവർത്തനങ്ങൾക്കുള്ള ഫൂറിയർ സീരീസ് ഈ രീതിയിൽ സിംപ്ലിഫയ ആകാൻ കഴിയുമെന്ന് നമ്മൾ ഇതിനകം കണ്ടു അതിനാൽ 𝑓 ഒരു ഈവൻ ഫങ്ക്ഷന് the f 𝑥 എന്നത് കോസൈൻ ഫങ്ക്ഷന് അടിസ്ഥാനത്തിൽ പ്രകടിപ്പിക്കാവുന്നതാണ് ഈ ഗുണകങ്ങൾ സിംപ്ലിഫയ ആകാനും കഴിയും 2L0Lfcos nπxL dx വിലയിരുത്താനും കഴിയും ഇന്റെഗ്രേൽ 2മടങ്ങ്കാരണം യഥാർത്ഥത്തിൽ അത് −𝐿 to Lലേക്ക് പിന്നെ 𝑛 എന്നത് 0 1 2 മുതലായവയ്ക്കാണ് അതിനാൽ ഫങ്ക്ഷന് ഈസ് ഈവൻ 𝑏𝑛 ഗുണകങ്ങൾ 0 ആയിത്തീരുന്നതും കൊസൈൻ സീരീസ് മാത്രമാണ് നമുക്ക് ലഭിച്ചതും അതുപോലെ 𝑓 ഒരു ഓഡ്ഡ് ഫങ്ക്ഷന് സൈൻ series പദങ്ങൾ മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ 0 മുതൽ L വരെ വീണ്ടും സിംപ്ലിഫൈഡ് ഇന്റഗ്രൽ സഹായത്തോടെ ഇന്റഗ്രൽ വീണ്ടും 0 മുതൽ L വരെ വിലയിരുത്താനാകും അതിനാൽ നമ്മൾ ഇത് വീണ്ടും പരിഗണിച്ച 2L0Lfcos nπxL dx വീണ്ടും ഇവിടെയുണ്ട് 1 2 അതിനാൽ ഫങ്ക്ഷന് ആശ്രയിച്ച് ഇത് ലളിതമാക്കിയ രൂപമായിരുന്നു ഇത് ഒരു ഈവൻ ഫങ്ക്ഷന് നമുക്ക് കൊസൈൻ പദങ്ങൾ മാത്രമേ ലഭിക്കൂ നമുക്ക് ഓഡ്ഡ് ഫങ്ക്ഷന് ഉണ്ടെങ്കിൽ നമുക്ക് സൈൻ പദങ്ങൾ മാത്രമേ ലഭിക്കൂ ഇവിടെ ഇത് ഓഡ്ഡ് ഫങ്ക്ഷന് അതിനാൽ നമുക്ക് ഓഡ്ഡ് ഫങ്ക്ഷന് നമുക്ക് സൈൻ പദങ്ങൾ മാത്രമേ ലഭിക്കൂ അതിനാൽ ഇപ്പോൾ നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ഹാഫ് റേഞ്ച് ഫോറിയർ സീരീസ് ഓഡ്ഡ്ഈവൻ ഫങ്ക്ഷന് oddeven function നമ്മൾ ചർച്ച ചെയ്തതാണ് ഈ ആശയം അതിനാൽ ഞാൻ ഇവിടെ വിശദീകരിക്കട്ടെ f 𝑥 എന്നത് 0 മുതൽ 𝐿 വരെയുള്ള ഇന്റർവെൽ മാത്രം നിർവ്വചിച്ചിട്ടുള്ള ഒരു ഫങ്ക്ഷന് കരുതുക കോസിൻ അല്ലെങ്കിൽ സൈൻ സീരീസ് ഈ 𝑓𝑥 പ്രകടിപ്പിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെന്ന് കരുതുക ഇപ്പോൾ ഇവിടെ ഈ 𝑓𝑥 ഫങ്ക്ഷൻ പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഞങ്ങളുടെ സെലെക്ഷൻ നമ്മൾ ഒരു ഇടവേളയിൽ സൈൻ അല്ലെങ്കിൽ കോസൈൻ സീരീസായി നിർവ്വചിക്കുന്നു ഉദാഹരണത്തിന് മുൻ പ്രഭാഷണത്തിൽ നമ്മൾ ഫോറിയർ സീരീസ് കണ്ടു സ്വാഭാവികമായും ഓഡ്ഡ് ഫങ്ക്ഷന് പ്രവർത്തനമായിരുന്നപ്പോൾ അത് സൈൻ സീരീസ് വരുന്നു ഫങ്ക്ഷന് പോലും ഈവൻ ഫങ്ക്ഷന് ആയിരുന്നപ്പോൾ അത് യാന്ത്രികമായി കൊസൈൻ സീരീസായി വരുന്നു എന്നാൽ ഇപ്പോൾ സ്ഥിതി വ്യത്യസ്തമാണ് അതിനാൽ ചില ഇന്റെര്വല് ഫങ്ക്ഷന് വീണ്ടും നിർവ്വചിക്കപ്പെടുന്നു ഫ്യൂറിയർ സീരീസ് ലഭിക്കുന്നതിന് നമുക്ക് അടിസ്ഥാനപരമായി ഒരു ചോയ്സ് ഉണ്ട് അതിൽ രണ്ട് പദങ്ങളും സൈനും കൊസൈനും ഉണ്ടാകും പക്ഷേ ഇവിടെ ഫോറിയർ സീരീസ് എന്നതല്ല ലക്ഷ്യം പക്ഷേ ഫോറിയർ സൈൻ സീരീസ് അല്ലെങ്കിൽ കൊസൈൻ സീരീസ് എന്നതാണ് ലക്ഷ്യം അതിനാൽ അത് എങ്ങനെ ചെയ്യാം അതിനാൽ f𝑥 ഒരു ഈവൻ അല്ലെങ്കിൽ ഓഡ്ഡ് ഫങ്ക്ഷന് നീട്ടിക്കൊണ്ട് ഇത് ചെയ്യാം കൂടാതെ മുമ്പത്തെ പ്രഭാഷണത്തിൽ നിന്ന് ഇപ്പോൾ ഉപയോഗിക്കപ്പെടുന്ന ആശയം ഇതാണ് ഒരിക്കൽ നമുക്ക് ഒരു ഫങ്ക്ഷന് ഒരു ഈവൻ ഫങ്ക്ഷന് ആണെങ്കിൽ അതിന്റെ ഫോറിയർ സീരീസിന് കോസൈൻ പദങ്ങൾ മാത്രമേ ഉണ്ടാകൂ നമുക്ക് ഒരു ഓഡ്ഡ് ഫങ്ക്ഷന് ഉണ്ടാകുമ്പോൾ അതിന്റെ ഫോറിയർ സീരീസ് സൈൻ പദങ്ങൾ മാത്രം അതിനാൽ നിങ്ങൾക്ക് ഒരു കൊസൈൻ സീരീസ് 𝑓𝑥 പ്രകടിപ്പിക്കണമെങ്കിൽ ഈ 𝑓𝑥 കോസൈൻ പരമ്പരയിൽ പ്രകടിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം അപ്പോൾ നമ്മൾ സ്വാഭാവികമായും 𝑓𝑥 മുഴുവൻ ഇന്റർവെൽ ഒരു തുല്യഫങ്ക്ഷന് വിപുലീകരിക്കും −𝐿 𝐿 അതിനാൽ 0 𝐿 ൽ ഫങ്ക്ഷന് ഇതിനകം നിർവചിക്കപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ അതിനെ ഇന്റെർവൽ നിർവചിക്കും −𝐿 0 അങ്ങനെ ഇന്റെർവൽ മുഴുവൻ ഫങ്ക്ഷന് ഒരു തുല്യ ഫങ്ക്ഷന് മാറുന്നു കൂടാതെ നമുക്ക്ഈവൻ ഫങ്ക്ഷന് ലഭിച്ചുകഴിഞ്ഞാൽ സ്വാഭാവികമായും നമുക്ക് ആ പുതിയ ഫങ്ക്ഷന് കോസൈൻ സീരീസ് മാത്രമേ ലഭിക്കൂ അതിനാൽ ഇവിടെ നമ്മൾ നിർവ്വചിക്കും നമ്മൾ ഫങ്ക്ഷന് പുനർനിർവചിക്കും നമുക്ക് പറയാം പുതിയ ഫങ്ക്ഷന് ℎ 𝑥 ആണ് അതായത് 0 ≤ 𝑥 𝐿 നമുക്ക് കൃത്യമായി 𝑓𝑥 ഉണ്ട് കൂടാതെ −𝐿 ≤ 𝑥 0 ൽ നമുക്ക് −𝑓−𝑥 ഉണ്ട് അങ്ങനെ ഇത് ℎ 𝑥 ഇപ്പോൾ ഈവൻ ഫങ്ക്ഷന് മാറുന്നു കൂടാതെ നമ്മൾ ഇതിന്റെ ഫൊറിയർ സീരീസ് എഴുതുമ്പോൾ അതിന് കൊസൈൻ പദങ്ങൾ മാത്രമേ ഉണ്ടാകൂ അതിനാൽ നമുക്ക് യാന്ത്രികമായി കൊസൈൻ സീരീസ് ലഭിക്കും മറുവശത്ത് നമുക്ക് പ്രകടിപ്പിക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഉദാഹരണത്തിന് ഈ 𝑓𝑥 സൈൻ സീരീസിൽ അതിനാൽ നിങ്ങൾക്ക് ഇപ്പോൾ സൈൻ സീരീസിൽ പ്രകടിപ്പിക്കണമെങ്കിൽ ഈ ഫങ്ക്ഷന് ഇന്റെര്വല് ഒരു ഓഡ്ഡ് ഫങ്ക്ഷന് വിപുലീകരിക്കണം 𝐿 0 അങ്ങനെ മുഴുവൻ ഇന്റെര്വല് 𝐿 𝐿 ഫംഗ്ഷൻഒരു ഓഡ്ഡ് ഫങ്ക്ഷന് മാറുന്നു അതിനാൽ ഈ ആശയം വീണ്ടും മുമ്പത്തെ പ്രഭാഷണത്തിൽ വിശദീകരിച്ചിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ നമ്മൾ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകും അതിനാൽ 𝑔 𝑥 𝑓 𝑥 ആണ് ഇത് ഇതിനകം f നൽകിയിരിക്കുന്നു ഫംഗ്ഷൻ 𝑓𝑥 നൽകിയിരിക്കുന്നു കൂടാതെ ഇടവേളയിൽ 0 ≤ 𝑥 0 നമ്മൾ ഇത് 𝑓 −𝑥 ആയി വിപുലീകരിച്ചു അങ്ങനെ 𝑔 𝑥 മൊത്തത്തിൽ ഒരു ഓഡ്ഡ് ഫങ്ക്ഷന് മാറുന്നു ഇപ്പോൾ ഇത് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഫലം ഉണ്ട് ഉദാഹരണത്തിന് 𝑓 എന്നത് ഇടവേളയിൽ നിർവ്വചിച്ചിരിക്കുന്ന ഒരു ഇന്റെര്വല് തുടർച്ചയായ ഫങ്ക്ഷന് ചില ഇടവേളകളിൽ 0 𝐿 fa02 n1an cos nπxL an 2L0Lfx cos nπxL dx എന്നതിനെ ഹാഫ് റേഞ്ച് കൊസൈൻ സീരീസ് ഓഫ് f എന്ന് വിളിക്കുന്നു fകൂടാതെ ഈ കൊസൈൻ സീരീസ് എങ്ങനെയാണ് നമുക്ക് ലഭിക്കുകയെന്ന് ഇപ്പോൾ നമുക്കറിയാം സീരീസ് L ≤ 𝑥 0 എന്ന ഫംഗ്ഷൻ ഉണ്ട് അങ്ങനെ മുഴുവൻ ഫങ്ക്ഷന്function ഒരു ഈവൻ ഫങ്ക്ഷന് മാറുന്നു തുടർന്ന് നമുക്ക് അതിന്റെ ഫോറിയർ സീരീസ് എഴുതാം അത് യാന്ത്രികമായി ഒരു കൊസൈൻ സീരീസ് ഇവിടെ കൊടുത്തിരിക്കുന്നു ആരുടെ an 'sനമുക്ക് ഈ ഫോർമുല ഉപയോഗിച്ച് കണക്കുകൂട്ടാം 𝑏𝑛′𝑠 സ്വാഭാവികമായും 0 ആയിരിക്കും അതിനാൽ ഇതിനെ ഹാഫ് റേഞ്ച് കൊസൈൻ സീരീസ് എന്ന് വിളിക്കുന്നു അതിനാൽ അധ്യായത്തേക്കാൾ മുൻ പ്രഭാഷണത്തിൽ നമ്മൾ ചർച്ച ചെയ്ത പ്രഭാഷണത്തേക്കാൾ വ്യത്യാസമുണ്ട് അവിടെ ഫംഗ്ഷൻ ഒരു ഈവൻ ഫങ്ക്ഷന് ഓഡ്ഡ് ഫങ്ക്ഷന് ആയിരുന്നു തുടർന്ന് നമ്മൾ അതിന്റെ ഫോറിയർ സീരീസ് കമ്പ്യൂട്ട് ചെയ്യുകയായിരുന്നു അല്ലെങ്കിൽ നമ്മൾ അതിന്റെ ഫോറിയർ സീരീസ് വിലയിരുത്തുകയും തുടർന്ന് യാന്ത്രികമായി ഒരു സൈൻ സീരീസ് അല്ലെങ്കിൽ കൊസൈൻ സീരീസ് ആയി വരികയും ചെയ്തു ഇവിടെ സ്ഥിതി ദിഫ്ഫെരെന്റ്റ് ആണ് ഫംഗ്ഷൻ ഇന്റെര്വല് നൽകിയിരിക്കുന്നു 0 𝐿 നമുക്ക് രണ്ട് സാധ്യതകളും ഉണ്ടാകാം നമുക്ക് അത് വിപുലീകരിക്കാൻ കഴിയും അങ്ങനെ സീരീസ് മുഴുവൻ പ്രവർത്തനവും −𝐿 𝐿 ഒരു ഈവൻ ഫങ്ക്ഷന് അല്ലെങ്കിൽ ഓഡ്ഡ് ഫങ്ക്ഷന് മാറുന്നു അതനുസരിച്ച് നമുക്ക് ഹാഫ് റേഞ്ച് കൊസൈൻ സീരീസ് അല്ലെങ്കിൽ ഈ ശ്രേണിയിലെ പകുതി ശ്രേണി ലഭിക്കും ഈ ഫോർമുല ഉപയോഗിച്ച് നമുക്ക് 𝑏𝑛 കണക്കാക്കാം 2𝐿 ഇതിനെ അർദ്ധ ശ്രേണി സൈൻ സീരീസ് എന്ന് വിളിക്കുന്നു അതിനാൽ ചില ഇടവേളകളിൽ നൽകിയിരിക്കുന്ന ഒരു ഫംഗ്ഷന് നമുക്ക് രണ്ട് എസ്പെന്ഷന് ഹാഫ് റേഞ്ച് കൊസൈൻ എക്സ്പാൻഷനും അല്ലെങ്കിൽ ഹാഫ് റേഞ്ച് സൈൻ എക്സ്പാൻഷനും ഉണ്ടാകും മറുവശത്ത് 0 𝐿 ൽ നിർവചിച്ചിരിക്കുന്ന ഒരു ഫംഗ്ഷനായി നമുക്ക് അതിന്റെ ഫോറിയർ സീരീസും ഉണ്ടായിരിക്കാം അതിൽ സൈൻ കോസൈൻsinecosineഎന്നീ പദങ്ങൾ ഉണ്ടായിരിക്കാം അതിനാൽ കൊസൈൻ പദങ്ങൾ മാത്രം ലഭിക്കാൻ ഒരു ഈവൻ എസ്പെന്ഷന് നമ്മൾ ഫംഗ്ഷൻ എസ്പെന്ഷന് ചെയ്യേണ്ടതുണ്ട് കൂടാതെ സൈൻ സീരീസ് മാത്രം ലഭിക്കാൻ ഓഡ്ഡ് സ്പെന്ഷന് ലഭിക്കുന്നതിന് ഫംഗ്ഷൻ വിപുലീകരിക്കേണ്ടതുണ്ട് അതിനാൽ ഒരു ചെറിയ പരാമർശം മാത്രം ശ്രദ്ധിക്കുക ഇടവേളയിൽ നിർവചിച്ചിരിക്കുന്ന ഒരു ഫംഗ്ഷന്റെ ഒരു ഫോറിയർ ശ്രേണി നമ്മൾ വികസിപ്പിക്കുന്നു 0 𝐿 അതിനാൽ നമുക്ക് ഫൊറിയർ സീരീസ് വികസിപ്പിക്കാൻ കഴിയും ഹാഫ് റേഞ്ച് ഫോറിയർ സീരീസ് അല്ല പൊതുവേ അതിൽ എല്ലാ സൈൻ കൊസൈൻsinecosine പദങ്ങളും അടങ്ങിയിരിക്കും ഈ series ഒത്തുചേരുകയാണെങ്കിൽ ഇത് ഒരു 𝐿 കണ്ടിന്യൂസ് സീരീസ് പ്രതിനിധാനം ചെയ്യുമെന്ന് നമുക്കറിയാം കാരണം ഈ ഫംഗ്ഷനാണെന്ന് നിർവ്വചിച്ചത് 0 𝐿 മേഖലയിലാണ് അതിനാൽ ഇത് 0 𝐿 ൽ നിർവചിച്ചിരിക്കുന്ന ഫംഗ്ഷനാണെന്ന് കരുതുക നമ്മൾ അതിന്റെ ഫോറിയർ സീരീസ് എഴുതുമ്പോൾ ആ സീരീസ് അത്തരമൊരു ഫംഗ്ഷനിലേക്ക് ഒത്തുചേരും ഇത് 0 𝐿 ലെ പീരിയോഡിക് ആണ് എന്നാൽ ഇപ്പോൾ ഈ ഹാഫ് റേഞ്ച് സീരീസിന്റെ ആശയം നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത ഫൂറിയർ സീരീസിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് സൈൻ അല്ലെങ്കിൽ കൊസൈൻ സീരീസ് ലഭിക്കാനുള്ള ഞങ്ങളുടെ ആഗ്രഹമനുസരിച്ച് നമ്മൾ ഇവിടെ ഫംഗ്ഷൻവിപുലീകരിക്കുന്നു ഫംഗ്ഷന്റെ അർദ്ധ ശ്രേണി 2𝐿 periodic functiom പ്രതിനിധീകരിക്കും ഉദാഹരണത്തിന് 0 മുതൽ L വരെ നിർവചിച്ചിരിക്കുന്ന അതേ ഫങ്ക്ഷന് ഞാൻ പരിഗണിക്കുകയാണെങ്കിൽ ഈ ഫംഗ്ഷന്റെ ഒരു സൈൻ സീരീസ് ലഭിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ എന്ത് ചെയ്യും ഈ സീരീസ് ഞാൻ ഒരു വിപുലീകരണം നടത്തും കൂടാതെ ഇപ്പോൾ എനിക്ക് അതിന്റെ ഫോറിയർ സീരീസ് എഴുതാനും ആ ഫോറിയർ സീരീസ് 𝐿 ആനുകാലികം മാത്രമല്ല 2𝐿 ആനുകാലികമായ ഒരു ഫംഗ്ഷനിലേക്ക് ഒത്തുചേരാനും കഴിയും അതിനാൽ ഈ പരാമർശത്തോടെ ആശയം വ്യക്തമാണെന്ന് ഞാൻ കരുതുന്നു അതിനാൽ നമുക്ക് കൂടുതൽ മുന്നോട്ട് പോകാം ഉദാഹരണത്തിന് ഹാഫ് റേഞ്ച് സൈൻ സീരീസ് നേടാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അതിനാൽ ഇവിടെ സൈൻ സീരീസ്ഉണ്ടായിരിക്കുക എന്നതാണ് ലക്ഷ്യം നമുക്ക് കൊസൈൻ സീരീസും ലഭിക്കും പക്ഷേ ആദ്യം സൈൻ സീരീസുമായി പോകാം അതിനാൽ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ഈ റീജിയൻ നൽകിയിരിക്കുന്നു 0 𝑥 1 അതിന്റെ സൈൻ സീരീസ് എഴുതാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അതായത് ഈ ഫംഗ്ഷൻ ഇന്റെര്വല് 1 𝑥 0 അങ്ങനെ മുഴുവൻ ഫംഗ്ഷനും 1 𝑥 1 ഒരു ഓഡ്ഡ് ഫങ്ക്ഷന് മാറുന്നു അതിനാൽ ഇത് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ആണെങ്കിൽ ex ഇന്റെര്വല് 0 𝑥 1 നമ്മൾ എന്താണ് ചെയ്യുന്നത് ഈ എക്സ്റ്റൻഷൻ ഇവിടെ ലഭിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അതിനാൽ ഇത് തന്നിരിക്കുന്ന ഫങ്ക്ഷന് 0𝑥Lഎക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ 1 നമ്മൾ എന്താണ് ചെയ്തത് ഈ സീരീസ് 1𝑥1 ഇപ്പോൾ ഒരു ഓഡ്ഡ് ഫങ്ക്ഷന് മാറിയതിനാൽ നമ്മൾ ഈ ഫങ്ക്ഷന് വിപുലീകരിച്ചു ഇപ്പോൾ നമ്മൾ അതിന്റെ ഫോറിയർ സീരീസ് എഴുതാം അതിനാൽ ഈ ഫംഗ്ഷന്റെ ഫോറിയർ സീരീസ് നമ്മൾ എഴുതുകയാണെങ്കിൽ സ്വാഭാവികമായും ഇതിന് സൈൻ സീരീസ് മാത്രമേ ഉണ്ടാകൂ കൂടാതെ നമുക്ക് ഇപ്പോൾ നേരിട്ടുള്ള ഫോർമുലയുണ്ട് ഈ ഫംഗ്ഷന്റെ ഫോറിയർ സീരീസ് നമുക്ക് എഴുതേണ്ടതില്ല മുമ്പത്തെ സ്ലൈഡിൽ നമുക്ക് അത് ഇതിനകം ഉണ്ട് ചില സീരീസ് 0 to 𝐿 വരെ ഫംഗ്ഷൻ നൽകുമ്പോൾ സൈൻ സീരീസ് കണക്കുകൂട്ടുന്നതിനുള്ള ഈക്വാഷൻ എന്താണെന്ന് നമ്മൾ ചർച്ച ചെയ്തു അതിനാൽ അതിന്റെ ഹാഫ് റേഞ്ച് സൈൻ സീരീസ് നമുക്ക് കണക്കാക്കാം അതിനാൽ ഹാഫ് റേഞ്ച് സൈൻ സീരീസിനായി നമ്മൾ ഫോറിയർ കോഫിഫിഷ്യന്റുകളായ 𝑏𝑛 കണക്കുകൂട്ടേണ്ടതുണ്ട് 𝑏𝑛 2l0lfsin nπxldx അതിനാൽ നമുക്ക് ഇന്റഗ്രൽ 20lexsin nπx dx വീണ്ടും l1 വീണ്ടും അതിനാൽ നമുക്ക് ഇത് ഭാഗങ്ങളായി ഇന്റഗ്രേറ്റ് കഴിയും അതിനാൽ നമുക്ക് 0 to 1 വരെ exsinnπx ഉണ്ട് പിന്നെ ഈ സൈൻ കൊസൈൻ ആയി മാറി വീണ്ടും ഇന്റഗ്രേഷൻ തുടരും അതിനാൽ ഈ 𝑛𝜋 ഫാക്ടർ ഇപ്പോൾ വന്നു അപ്പോൾ നമുക്ക് ഇത് സിംപ്ളൈഫ്യ്മക്കാം അതിനാൽ ഈ സാഹചര്യത്തിൽ ഉദാഹരണത്തിന് ഇവിടെ സൈൻ 0 ആകും സൈൻ 𝑛𝜋 0 ആകും അതിനാൽ ഈ പദം 0 ആകും നമ്മൾ രണ്ടാമത്തെ ടേം വീണ്ടും ഇന്റഗ്രേഷൻ ചെയ്യേണ്ടതുണ്ട് ഈ റിസൾട്ട് നമുക്ക് ഇവിടെ ലഭിക്കും ഇത് 𝑏𝑛 എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇത് നേടുന്നതിന് സിംപ്ലിഫൈഡ് ആകാം നമ്മൾ ഇത് മറുവശത്തേക്ക് കൊണ്ടുപോയാൽ നമുക്ക് bn എന്നതിന് സിംപ്ലിഫൈഡ് ആകാം അതിനാൽ സിംപ്ലിഫൈഡ് ആക്കിയതിനുശേഷം നമുക്ക് ലഭിക്കുന്നു 𝑏𝑛 2nπ1 en1n22 അതിനാൽ ഇപ്പോൾ ഫൊറിയർ ഗുണകങ്ങൾ ഉള്ളതിനാൽ നമുക്ക് എന്തുചെയ്യാൻ കഴിയും നമുക്ക് സൈൻ സീരീസ് എഴുതാം കാരണം ഇവിടെ സൈൻ സീരീസ് ഉണ്ടായിരിക്കുക എന്നതായിരുന്നു ലക്ഷ്യം അതിനാൽ 𝑒x എന്നതിനായുള്ള സൈൻ സീരീസ് ആയിരിക്കും 2π1𝑛2𝜋2 𝑛𝜋𝑥 ഈ 2𝜋 അവിടെ നിന്നാണ് വരുന്നത് 𝑏𝑛 കോഫിഫിഷ്യന്റ് ഇവിടെ പകരം വയ്ക്കുന്നു കൂടാതെ ഇത് ഇവിടെ ഇക്വാളിറ്റി ഈ ഇക്വാളിറ്റി നമ്മൾ എഴുതിയിട്ടുണ്ട് ഇത് 0𝑥1 എന്ന റീജിയനിൽ ശരിയാണ് കാരണം നമുക്ക് കണ്ടിന്യൂസ് ഫങ്ക്ഷന് ഉണ്ട് അതിനാൽ ഞങ്ങളുടെ ex ഫങ്ക്ഷന് റീജിയനിൽ ആയിരുന്നു 0𝑥 1 അതിനാൽ ഈ റേഞ്ചിൽ ഈ ഫങ്ക്ഷന് തുടരുന്നു സ്വാഭാവികമായു ഈ Dirichlet തിയറി വഴി ഈ ഫോറിയർ സീരീസ് ഈ റീജിയൻ കോൺവെർജ് ചെയ്യും 0 𝑥 1 നമുക്ക് ഒരു പ്രോബ്ലം ഉണ്ടാകും at 0 നമുക്ക് ഈ ഇക്വാളിറ്റി 0 ൽ ഉണ്ടാക്കാൻ കഴിയില്ല കാരണം ഇത് ഒരു ഓഡ്ഡ് എക്സ്റ്റൻഷൻ ആണ് 0 ൽ ഒരു എൻഡിൽ വാല്യൂ 1 ആണ് മറ്റേ എൻഡിൽ അത് −1 ആണ് നമ്മൾ ആവറേജ് എടുക്കണം അതിനാൽ ഇത് 0 ആയിത്തീരും വിപുലീകൃത ഭാഗമുള്ള ഈ മുഴുവൻ ഫംഗ്ഷന്റെയും ഫോറിയർ സീരീസ് 0 at 0 കോൺവെർജ് ചെയ്യും പക്ഷേ 0 𝑥 1 ൽ നമുക്ക് തീർച്ചയായും ഈ ഇക്വാളിറ്റി എഴുതാം അതിനാൽ ഇവിടെ ഈ സീരീസ് ex ന് തുല്യമാണ് ഇതിന് സൈൻ സീരീസ് മാത്രമേയുള്ളൂ അതിനാൽ ഇത് സൈൻ സീരീസ് ആണ് ഇത് പ്ലോട്ട് ചെയ്യാൻ അതിനാൽ ഇതാണ് സൈൻ സീരീസ് നമ്മൾ ഇപ്പോൾ ഇവാലുവേറ്റഡ് ചെയ്തു കോൺസ്ട്രക്ക്ട ചെയ്തു അതിനാൽ ഇതായിരുന്നു ഫംഗ്ഷൻ നിങ്ങൾ ഇത് ഓർക്കുന്നു 1 to 1 വരെയുള്ള മൊത്തത്തിൽ ഫങ്ക്ഷന് ഓഡ്ഡ് ഫങ്ക്ഷനായി മാറുന്നു ഇപ്പോൾ നിങ്ങൾ ഈ റേഞ്ച് ℝ ന്റെ മുഴുവൻ റേഞ്ച്ന്നും വേണ്ടി കോൺവെർജ് ചെയ്യുകയാണെങ്കിൽ അതിനാൽ നമുക്ക് ഈ ഘടന ഉണ്ടാകും ഇത് ഇതുപോലുള്ള ഒന്നിലേക്ക് കോൺവെർജ് ചെയ്യും അതിനാൽ ഇവിടെ വീണ്ടും ഇവിടെയും കോൺവെർജ് ചെയ്യും അതിനാൽ അത് ഫോറിയർ സീരീസ് ആയിരിക്കും മിഡിലിൽ ഇത് എല്ലായ്പ്പോഴും 0 ലേക്ക് കടന്നുപോകും അതിനാൽ ഡിസ്കോന്റിന്ഇറ്റി ആകുന്ന പോയിന്റിൽ അത് ആവറേജ് വാല്യൂയിലേക്ക് ഒത്തുചേരും അല്ലെങ്കിൽ 𝑥 ന്റെ മറ്റേതെങ്കിലും വാല്യൂയിലേക്ക് ഇത് കൃത്യമായി ഈ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനിലേക്ക് ഒത്തുചേരും അതിനാൽ ഇപ്പോൾ എന്താണ് ഇന്ട്രെസ്റ്റിംഗ് ആയതു ഈ സൈൻ സീരീസിന് പകരം അതേ ഫംഗ്ഷനായി നമുക്ക് ഒരു കൊസൈൻ സീരീസ് ലഭിക്കുമായിരുന്നു അതിനാൽ കൊസൈൻ ഫംഗ്ഷനായി അടിസ്ഥാനത്തിൽ നമുക്ക് ex ന്റെ മറ്റ് റെപ്രെസെന്റഷന് ലഭിക്കും കൂടാതെ കൊസൈനിന്റെ കാര്യത്തിൽ നമുക്ക് തികച്ചും ദിഫ്ഫെരെന്റ്റ് കോൺവെർജിന്റ ഫങ്ക്ഷന് ഉണ്ടാകും എന്നതാണ് എന്നാൽ പ്രദേശത്ത് 0 𝑥 1 ഇത് വീണ്ടും പൊരുത്തപ്പെടും അതിനാൽ നമുക്ക് ഇവിടെ രണ്ട് ദിഫ്ഫെരെന്റ്റ് സ്പൻഷൻസ് നടത്താം ഒന്ന് പൂർണ്ണമായും സൈനിന്റെ ബേസ് ആണ് മറ്റ് സീരീസ് നമുക്ക് കൊസൈനിന്റെ ബേസ്ൽ ലഭിക്കും എന്നാൽ രണ്ട് സീരീസ് 0 𝑥 1 എന്നതിൽ ഒരേ ഫങ്ക്ഷനിലേക്കു ex കോൺവെർജ് ചെയ്യും ഉദാഹരണത്തിന് നമ്മൾ ഇവിടെ കൊസൈൻ സീരീസ് പ്ലോട്ടേഡ് ചെയ്തിട്ടുണ്ട് അതിനാൽ നമ്മൾ അതിന്റെ കൊസൈൻ സീരീസ് എഴുതുകയാണെങ്കിൽ സിമിലർ സ്റെപ്സ് നമ്മൾ പിന്തുടരേണ്ടതുണ്ട് നമ്മൾ മുമ്പ് എന്താണ് ചെയ്തത് അതിനാൽ റീജിയനിൽ 0 𝑥 1 ഇത് ഈ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷന് ഈക്വൽ ആയിരിക്കും ഇത് ഇത്തവണ സ്റ്റെൻഡഡ് ചെയ്തു അതിനാൽ ഇത് ഇന്റെർവളിലെ ഈവൻ ഫങ്ക്ഷനായി മാറി 0𝑥 1 തുടർന്ന് നമ്മൾ ഫോറിയർ സീരീസ് എഴുതി അത് ഇപ്പോൾ കൊസൻ സീരീസ് ആണ് അതിനാൽ ഈ മേഖലയിലെ അതേ ഫങ്ക്ഷന് ആണ് ഇവിടെ ex ഇപ്പോൾ അതിനെ ശുദ്ധമായ കൊസൈൻ ടേർസ് പ്രതിനിധീകരിക്കുന്നു പക്ഷേ അത് ഒരേ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനിലേക്ക് മാറുന്നു അതിനാൽ കൊസൈനിന്റെ കാര്യത്തിൽ നമുക്ക് കോൺവെർജിൻസ് ഉണ്ട് മുമ്പത്തെ സ്ലൈഡിൽ നമുക്ക് ex ഉണ്ട് അത് പൂർണ്ണമായും സൈൻ പദങ്ങളിൽ എഴുതിയിരിക്കുന്നു ശരി ഇപ്പോൾ നമുക്ക് മറ്റൊരു ഉദാഹരണത്തിലേക്ക് പോകാം ഇവിടെ നമ്മൾ f 𝑥 sin 𝜋𝑥 ആയി പരിഗണിക്കും ഇന്റെർവൽ 0 𝑙 നമ്മൾ അതിന്റെ കൊസൈൻ സീരീസ് 0 𝑙 എഴുതാം അതിനാൽ നമ്മൾ സിമിലർ സ്റെപ്സ് വീണ്ടും ചെയ്യും അതിനാൽ കൊസൈൻ സീരീസിനായി നമ്മൾ കണക്കുകൂട്ടേണ്ടതുണ്ട് 𝑎𝑛 അതിനാൽ നമുക്ക് 2 sin 𝑎 cos 𝑏 ഫോർമുല ഉപയോഗിക്കാനാകും തുടർന്ന് നമ്മൾ അത് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടതുണ്ട് അതിനാൽ ഞാൻ ഇത് വിശ്വസിക്കുന്നു നമുക്ക് കൂടുതൽ മുന്നോട്ട് പോകാം അതിനാൽ സൈനിനൊപ്പം നമുക്ക് കൊസൈൻ പദമുണ്ട് ഇവിടെയും നമുക്ക് കൊസൈൻ പദമുണ്ട് തുടർന്ന് ഇത് ഇന്റഗ്രേറ്റ് തുടർന്ന് നമ്മൾ 0 മുതൽ l വരെ ലിമിറ്റുകൾ നൽകണം ഇത് സാധ്യമാകുന്ന ഒരു സ്പ്രെഷൻ ന്റെ ഈ വാല്യൂസ് ലഭിക്കാൻ സിംപ്ലിഫയ് ചെയ്യുക അതിനാൽ an0 ആകും n ഓഡ്ഡ് ആകുമ്പോൾ ഈവൻ ആകുമ്പോൾ ഇത് സിംല്പിഫൈഡ് ആകുന്നു 4πn1 അതിനാൽ നമുക്ക് an ഉണ്ട് അതിനാൽ നമുക്ക് ഈ 𝑎1 സെപറേറ്റീല്യ കണക്കാക്കാം അങ്ങനെയാണ് 𝑎1 ന്റെ ഫലം നമ്മൾ അവിടെ 𝑛 1 ഇട്ടു അത് വീണ്ടും സംയോജിപ്പിക്കാൻ കഴിയും ഈ സാഹചര്യത്തിൽ 𝑎1 0 എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു അതിനാൽ f ന്റെ ഫൊറിയർ കൊസൈൻ സീരീസ് കൊടുത്തിരിക്കുന്നത് ഇത് കൊസൈൻ ഫംഗ്ഷനുകളുടെ അടിസ്ഥാനത്തിലാണ് റീജിയനിൽ വീണ്ടും വ്യത്യാസപ്പെട്ടിരിക്കുന്നു 0𝑥𝑙 ഇന്റെർവളിൽ ഈ സൈൻ ഫംഗ്ഷൻ continue ചയ്യുന്നതിനാൽ നമുക്ക് സൈൻ ഫങ്ക്ഷന് ഉണ്ട് 0𝑥𝑙 അതിനാൽ ഇവിടെ എന്താണ് ഇന്ട്രെസ്റ്റിംഗ് ആയതു ഈ സൈൻ പ്രവർത്തനം sin nπl പൂർണ്ണമായും കൊസൈൻ ഫങ്ക്ഷന്റെ ബേസിൽ എഴുതപ്പെട്ടിരിക്കുന്നത് എ അതിനാൽ നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു റേഞ്ചിൽ ഒരു ഫംഗ്ഷൻ നൽകിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്യൂറിയർ സൈൻ സീരീസ് കംപ്യൂട്ട ചെയ്യണമെങ്കിൽ നമ്മൾ ഓഡ്ഡ് എക്സ്റ്റൻഷൻ ഫംഗ്ഷൻ എക്സ്റ്റൻഷൻ ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് പൂർണ്ണമായും കൊസൈൻ വേണമെങ്കിൽ നമ്മൾ ഇത് ഒരു ഈവൻ ഫങ്ക്ഷന് ആയി എക്സ്റ്റൻഷൻ ചെയ്യണം അതിനാൽ ഇവിടെ സൈൻ ഫംഗ്ഷൻ കൊസൈൻ ഫംഗ്ഷനുകളുടെ ബേസിൽ എഴുതിയിരിക്കുന്നത് ഈ ഫങ്ക്ഷന് ഇവിടെ sinnπxl ഇടവേളയിൽ 0 𝑥 𝑙 നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നു 𝑙 1 ശ്രേണി 0 ആണ് 𝑥 𝑙 എന്നിട്ട് ഈ എക്സ്റ്റൻഷൻ ഈവൻ എക്സ്റ്റൻഷൻ കൊസൈൻ സീരീസ് നമ്മൾ എഴുതി തുടർന്ന് അതിന്റെ ഫലമായി ഫൊറിയർ സീരീസിന് ഈ കൊസൈൻ പദങ്ങളുണ്ട് മുമ്പത്തെ സ്ലൈഡിൽ നൽകിയ റിസൾട്ട് നമുക്ക് ലഭിച്ചു അതിനാൽ ഇപ്പോൾ ഇവിടെ നമുക്ക് എസ്പാൻഡ് ചെയ്യണം അതിനാൽ സൈൻ സീരീസ് അല്ലെങ്കിൽ കൊസൈൻ സീരീസ് ലഭിക്കുന്നതിന് നമ്മൾ 2𝑥0 എന്ന ഇന്റെർവെലിൽ ഈ fx ഫങ്ക്ഷന് അതിനാൽ സൈൻ സീരീസ് ലഭിക്കാൻ നമ്മൾ വെറും bn കമ്പ്യൂട്ട ചെയ്യേണ്ടതുണ്ട് വാസ്തവത്തിൽ നമ്മൾ ഇത് നീട്ടേണ്ടതില്ല ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് ആശയം വ്യക്തമായിരിക്കണം എന്നാൽ ഇതിനകം ചർച്ച ചെയ്ത ഈക്വാഷന്സിന്റെ9equation സഹായത്തോടെ നമ്മൾ കാൽക്കുലറെ ചെയ്യുകയും അതിന്റെ സൈൻ സീരീസ് എഴുതുകയും ചെയ്യും കോസിൻ ഒന്നിനായി നമുക്ക് കമ്പ്യൂട്ട ചെയ്യാൻ 𝑎𝑛′𝑠 ഉണ്ടായിരിക്കും തുടർന്ന് അതിന്റെ ഫോറിയർ സീരീസ് നമുക്ക് എഴുതാം അതിനാൽ നമ്മൾ ഇത് ബേസിക്കലി എസ്പാൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഓഡ്ഡ് എസ്പാൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ എസ്പാൻഡ് ചെയ്യുകയോ എന്ന നിലയിൽ ഫങ്ക്ഷന് എസ്പാൻഡ് ചെയ്യുകയോ ചെയ്യേണ്ടതില്ല നമ്മൾ ഫോറിയർ സീരീസ് എഴുതേണ്ടതുണ്ട് അത് ആവശ്യമില്ല അതിനാൽ നമ്മൾ കമ്പ്യൂട്ട ചെയ്യാം അതിനാൽ കമ്പ്യൂട്ട ചെയ്യാനുള്ള പൊതു ഫോർമുല bn2L0LfsinnπxL dx അതിനാൽ ഇവിടെ 𝐿 2202xsin എന്നിട്ട് നമുക്ക് nπx2dxഉണ്ട് അത് നമുക്ക് ഭാഗങ്ങളായി ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടതുണ്ട് അതിനാൽ ആദ്യത്തേത് 𝑥 ആണ് അത് അതേപടി റിമൈൻ ചെയ്യുന്നു തുടർന്ന് നമുക്ക് സൈനിന് കോസ് ഉണ്ട് തുടർന്ന് ഈ ഇന്റഗ്രേറ്റ് ലഭിക്കുന്നതിന് നമുക്ക് സൈൻ ഇന്റഗ്രേറ്റ് ചെയ്യുന്നതിനാൽ അവിടെ ′ ′ ചിഹ്നം ഉണ്ട് പിന്നെ നമുക്ക് ' ′ ചിഹ്നമുള്ള കൊസൈൻ ഉണ്ട് ഈ 2nπ ഫാക്ടർ അവിടെ ദൃശ്യമാകും അങ്ങനെ വീണ്ടും അവിടെ ഒരേ 2nπ ഫാക്ടർ′ ′ ചിഹ്നത്തോടൊപ്പം ′ ′ ഉണ്ടായിരുന്നു അതിനാൽ ഇത് ക്രമീകരിച്ചു പിന്നെ നമുക്ക് ഇവിടെ x ഇന്റെ സ്ഡിഫറെസിയേഷൻ 1 ഉണ്ട് തുടർന്ന് വീണ്ടും നമുക്ക് ഈ cos nπx2 ലഭിക്കുന്നു 2 അതിനാൽ ഇത് കൂടുതൽ ഇന്റഗ്രേറ്റ് ചെയ്യാൻ കഴിയും അതിനാൽ നമ്മൾ ഈ 2 റീപ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ 2 ഉപയോഗിച്ച് cos nπ ഉണ്ടാകും തുടർന്ന് 0 ഇടുകയാണെങ്കിൽ നമുക്ക് അവിടെ 0 ഉണ്ടാകും അതിനാൽ ഇത് ലഭിക്കാൻ നമ്മൾ ഇത് സിംപ്ലിഫയ ചെയ്യേണ്ടതുണ്ട് 4nπcos nπ അതിനാൽ 0 𝑥 2 മേഖലയിൽ നമുക്ക് ഈ ഫോറിയർ സൈൻ സീരീസ് ലഭിക്കും കാരണം നമുക്ക് ഉണ്ട് bn′𝑠 തയ്യാറാണ് അതിനാൽ x ഇവിടെ കോഫിഫിഷ്യന്റ് ഉപയോഗിച്ച് സൈൻ സീരീസിന്റെ ബേസിൽ എഴുതാം 4nπcos nπ അല്ലേൽ എസ്പാൻഡ് ചെയ്യാം നമുക്ക് ഇവിടെ കിട്ടുന്നത് സൈൻ റെരംസ് ഇൻ സീരീസ് അത് കൂടാതെ x ഇന്റെ റെപ്രെസെനേഷനും ആണ് ഇതാണ് ഇതിന്റെ പ്രതിനിധാനം അവിടെ നമുക്ക് ഇക്വാളിറ്റി ഉണ്ട് അതിനാൽ റീജിയനിൽ 0𝑥2 നമുക്ക് ഈ ഇക്വാളിറ്റി ഉണ്ട് അതിനാൽ ഈ സീരീസ് കോൺവെർജ് ചെയ്യും കാരണം ഡിറിക്ലെറ്റ് സിദ്ധാന്തത്തിൽ നിന്ന് ഈ റിസൾട്ട് നമുക്കറിയാം അത് കണ്ടിന്യൂസ് പോയിന്റ്സിൽ അത് ആക്സസിട് ഫങ്ക്ഷന് തുല്യമായിരിക്കും ഫംഗ്ഷൻ𝑥 ആയിരുന്നു അതിനാൽ ഈ സീരിസിന് നമുക്ക് തുല്യമാണ് അത് തികച്ചും സൈൻ റെരംസ് ആണ് ഉള്ളത് ശരി നമുക്ക് കൊസൈൻ സീരീസിൽ ഇത് 𝑓𝑥x എക്സ്പ്രസ്സ് ചെയ്യാൻ കഴിയും കഴിയും അതിനായി an′𝑠 കംപ്യൂട്ട ചെയ്യേണ്ടതുണ്ട് 𝑛 ≠ 0 ന് a0 ന് നമ്മൾ പ്രത്യേക കംപ്യൂട്ട നടത്തും അതിനാൽ ഇവിടെ 𝑎𝑛2202xcos nπx2 dx ന്റെ അതേ ഫോർമുല ഞങ്ങൾക്കുണ്ട് നമുക്ക് ഇത് വീണ്ടും ഇന്റഗ്രേറ്റ് ബൈ പാർട്സ് കഴിയും അതിനാൽ ഇവിടെ അത് x ആണ് അപ്പോൾ നമുക്ക് അവിടെ സൈൻ ലഭിക്കും വീണ്ടും സൈനും 𝑥 യുടെ വ്യത്യാസം 1 ആയിരിക്കും പിന്നെ നമ്മൾ വീണ്ടും ഡിഫറെന്റിയേറ്റ ചെയ്യേണ്ടതുണ്ട് ഇത് 0 ആയിത്തീരും അവിടെ നമുക്ക് ലഭിക്കാൻ ഈ കോസ് പദവും 0 മുതൽ 2 വരെയുള്ള പരിധികളും വീണ്ടും ഡിഫറെന്റിയേറ്റ ചെയ്യേണ്ടതുണ്ട് ഈ ലിമിറ്റുകൾ സുബ്സ്ടിട്യൂറ്റ് ശേഷം നമുക്ക് 4n22cos nπ 1 ലഭിക്കുന്നു അതിനാൽ നമുക്ക് കോഎഫിന്റ് ഉണ്ട് an അതുപോലെ അതിനാൽ ഇവ ഉപയോഗിച്ച് നമുക്ക് അതിന്റെ സീരീസ് ഇവിടെ എഴുതാം a𝑛′𝑠 കൂടാതെ നമ്മൾ കോഎഫീസെന്റ് a0 സെപറേറ്റീല്യ കംപ്യൂട്ട ചെയ്യേണ്ടതുണ്ട് കാരണം ഇത് ഉപയോഗിച്ച് നേരിട്ട് an സാധ്യമല്ല കാരണം ഈ ഡിനോമിനേറ്റർ n ആണ് അതിനാൽ നമുക്ക് a0 സെപറേറ്റീല്യ കംപ്യൂട്ട ചെയ്യേണ്ടതുണ്ട് അത് അവിടെ 2 വരും കൂടാതെ ഇപ്പോൾ 0𝑥 എന്ന റീജിയനിൽ കൊടുത്തിരിക്കുന്ന 𝑥 എന്നതിനായുള്ള ഫൊറിയർ സീരീസ് നമുക്ക് എഴുതാം അതിനാൽ നമുക്ക് പൂർണ്ണമായും കൊസൈൻ സീരീസിന് തുല്യമാണ് അതിനാൽ അതേ 𝑥ഫംഗ്ഷൻ റീജിയനിൽ നൽകിയിട്ടുള്ള 0 𝑥 2 നമ്മൾ ഈ 𝑥 ഫുള്ളി ഇക്വാളിറ്റി സൈൻ കോസിൻ സീരിസിൽ എഴുതിയിട്ടുണ്ട് മുമ്പത്തേത് നമുക്ക് സൈൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ മേഖലയിലെ റീജിയൻ പ്രാതിനിധ്യം 0 𝑥 2 നമ്മൾ ഇപ്പോൾ കൊസൈനിന്റെ ബേസിൽ എഴുതിയത് അതിനാൽ ഈ ഹാഫ് സീരീസ് സൈൻ അല്ലെങ്കിൽ കൊസൈൻ സീരീസിന്റെ സൈൻ സീരീസിലോ കൊസൈൻ സീരീസിലോ നമുക്ക് നൽകിയിരിക്കുന്ന ഫംഗ്ഷൻ എഴുതാൻ കഴിയുക ശരി ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് കാണാൻ അതിനാൽ ഇത് 0 𝑥 2 ൽ നൽകിയിരിക്കുന്ന ഫങ്ക്ഷന് ആയിരുന്നു അവിടെ ചെയ്യൂ ഫോറിയർ സീരീസ് പിരീഡ് 4 ഉള്ള ഒരു പീരിയോഡിക് ഫങ്ക്ഷന് ഒത്തുചേരും കാരണം ഇത് അവിടെ ചെയ്യേണ്ട കോൺവെർജിങ് ആണ് എന്നിരുന്നാലും നമ്മൾ ഇത് വ്യക്തമായി ചെയ്തിട്ടില്ല ഫോറിയർ സീരീസ് നേടി നമ്മൾ നേരിട്ടുള്ള ഫോർമുല പ്രയോഗിച്ചു പക്ഷേ കൃത്യമായി എന്താണ് സംഭവിക്കുന്നതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം അതിനാൽ ഈ ഫംഗ്ഷന്റെ കാലയളവ് −2 𝑥 2 ൽ നിന്ന് ആയിരിക്കും ഇത് ഈ ഫംഗ്ഷന്റെ ഓഡ്ഡ് എസ്റ്റെന്ഷന് ആണ് അതിനാൽ സ്വാഭാവികമായും ഈ സിറ്റുവേഷനിൽ നമുക്ക് സൈൻ സീരീസ് ലഭിക്കും കോസിൻ സീരീസിനായി ഇത് 0 𝑥 2 ഇടവേളയിൽ 𝑥 ആയി നൽകിയിട്ടുള്ള ഫങ്ക്ഷന് ആണ് ഈ 𝑓 𝑥 ഫംഗ്ഷന് നമുക്ക് ഈ ഈവൻ എസ്റ്റെന്ഷന് ഉണ്ടായിരിക്കണം തുടർന്ന് ഫൊറിയർ സീരീസ് ഇവിടെ കൃത്യമായി കോൺവെർജ് ചെയ്യും ഈ പീരീഡ് ആയിരിക്കും ഈ പീരിയോഡിക് ഫങ്ക്ഷന് ഇവിടെ റിപീറ് ചെയ്യും അതിനാൽ ഇപ്പോൾ ഫൂറിയർ സീരീസിന്റെ കാര്യത്തിൽ ഫൂറിയർ സീരീസ് ഈ ഫംഗ്ഷനിലേക്ക് മാറുന്നു സൈൻ സീരീസിന്റെ കാര്യത്തിൽ ഇത് ഈ ഫംഗ്ഷനിലേക്ക് മാറുന്നു ഉദാഹരണത്തിന് കൊസൈൻ കേസിനായി നിങ്ങൾക്ക് എല്ലായിടത്തും കണ്ടിന്യൂയിറ്റി ഉണ്ട് ഈ ഫൊറിയർ സീരീസിന്റെ വാല്യൂ ഫൊറിയർ കോസിൻ സീരീസ് ഏത് ഘട്ടത്തിലും കൃത്യമായി ഈ ഫംഗ്ഷന്റെ മൂല്യമായിരിക്കും പക്ഷേ ഈ സാഹചര്യത്തിൽ ഉദാഹരണത്തിന് ഈ പോയിന്റുകളിൽ നമുക്ക് പ്രശ്നമുണ്ട് പക്ഷേ അത് ഫോറിയർ സീരീസിനെ മധ്യത്തിലേക്ക് 0 ആയി ആവറേജ് വാല്യൂത്തിലേക്ക് മാറ്റും അതിനാൽ കോൺവെർജിൻസ് റിസൾട്ടുമായി നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ട് ശരി അതിനാൽ ഈ പ്രഭാഷണങ്ങൾ തയ്യാറാക്കാൻ നമ്മൾ ഉപയോഗിച്ച റെഫെറെൻസുകൾ ഇവയാണ് ഇപ്പോൾ ഈ പ്രഭാഷണത്തിൽ നമ്മൾ എന്താണ് ചർച്ച ചെയ്തതെന്ന്കൺക്ലൂഡ് ചെയ്യാൻ ഈ 𝑓 ഇടവേളയിൽ ഡിഫൈൻഡ് ചെയ്ത ഒരു പാർട്ട്വൈസ് കണ്ടിന്യൂസ് ഫങ്ക്ഷന് കരുതുക 0 𝐿 പിന്നെ കൊസൈൻ സീരീസ് എഴുതുക എന്നതാണ് ഞങ്ങളുടെ ആഗ്രഹം അല്ലെങ്കിൽ നമ്മൾ അതിനെ ഹാഫ് റേഞ്ച് കോസിൻ സീരീസ് എന്ന് വിളിക്കുന്നു അവിടെ 𝑓 𝑥 എന്നത് കോസിൻ ഫംഗ്ഷനുകളുടെ അടിസ്ഥാനത്തിൽ a02n1ancos nπxL ആയി പ്രതിനിധാനം ചെയ്യാവുന്നതാണ്an2L0Lfcos nπxL dx അല്ലെങ്കിൽ സൈൻ സീരീസ് ഇത് 01bnsin nπxLഎസ്പാൻഡ് ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മൾ 𝑏𝑛 വിത്ത് 2L0Lfsin nπxLdxഉപയോഗിച്ച്കംപ്യൂട്ട ചെയ്യേണ്ടതുണ്ട് പിന്നെ നമുക്ക് ഫംഗ്ഷന്റെ ശുദ്ധമായ സൈൻ വിപുലീകരണം ഉണ്ട് ഇപ്പോൾ മൂന്ന് സാധ്യതകളുണ്ട് കുറഞ്ഞത് മൂന്ന് സാധ്യതകളെങ്കിലും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് 0 𝐿 ശ്രേണിയിലെ ഒരു ഫംഗ്ഷൻ നൽകിയാൽ നമുക്ക് അതിന്റെ ഫൊറിയർ സീരീസ് നിർമ്മിക്കാൻ കഴിയും പൊതുവേ സൈനും കൊസൈനും ഉണ്ടായിരിക്കും രണ്ട് നിബന്ധനകളും ഫൊറിയർ സീരീസ് 𝐿 ആനുകാലിക ഫങ്ക്ഷനിലേക്കു ഒത്തുചേരും കൂടാതെ ഈ ഇന്റെർവൽ 0 𝐿 ൽ നൽകിയിരിക്കുന്ന ഫംഗ്ഷൻ കൃത്യമായി നിർവ്വചിക്കും കാരണം നമ്മൾ അതിന്റെ ഫൂറിയർ സീരീസ് എഴുതിയിട്ടുണ്ട് ഇപ്പോൾ ഹാഫ് റേഞ്ച് സീരീസിന് നമുക്ക് കൊസൈൻ സീരീസ് വേണമെങ്കിൽ കോസിൻ സീരീസ് പിരീഡ് 2𝐿 ഉള്ള പീരിയോഡിക് ഫങ്ക്ഷനിലേക്കു ഒത്തുചേരും കാരണം ഇപ്പോൾ ഒരു പീരിയഡിൽ ഫംഗ്ഷൻ നിർവചിക്കപ്പെടും 𝐿 to 𝐿 വരെ 𝐿 to 0 വരെ ഇതിന് ഒരു ഈവൻ എക്സ്റ്റൻഷൻ മാത്രമേ ഉണ്ടാകൂ അപ്പോൾ മാത്രമേ നമുക്ക് ഈ ഹാഫ് റേഞ്ചിലുള്ള കൊസൈൻ സീരീസ് ലഭിക്കൂ അതുപോലെ ഹാഫ് റേഞ്ച് സൈൻ സീരീസിന് ഈ ഹാഫ് റേഞ്ച് ഫോറിയർ സൈൻ സീരീസിന് അത് 2𝐿 പിരീഡ് ഉള്ള ഫംഗ്ഷനിലേക്ക് ഒത്തുചേരും ഒരു പീരിയഡിൽ ഇത് L to L വരെ നിർവചിക്കപ്പെടും −𝐿 to 0 വരെ നമ്മൾ ചെയ്യും ഈ 0 to 𝐿 വരെ ഡിഫൈൻഡ് ഫംഗ്ഷന്റെ ഓഡ്ഡ് എക്സ്റ്റൻഷൻ ഉണ്ട് അതിനാൽ ഫോറിയർ സീരീസിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഹാഫ് റേഞ്ച് സീരിസിനെ ആശയം വ്യക്തമാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇത് ഓഡ്ഡ് ആൻഡ് ഈവൻ എക്സ്റ്റൻഷൻ അടിസ്ഥാനമാക്കിയുള്ളതാണ് കൂടാതെ സൈൻ ഫംഗ്ഷനുകളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ കൊസൈൻ ഫംഗ്ഷനുകളുടെ അടിസ്ഥാനത്തിൽ ഫോറിയർ സീരീസ് ഉണ്ടായിരിക്കണം ശരി അതിനാൽ ഈ പ്രഭാഷണത്തിന് ഇത്രയേയുള്ളൂ നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് ഞാൻ നന്ദി പറയുന്നു